മാനേജിങ് ഇന്റലെക്ച്ചൽ പ്രോപ്പർട്ടി ഇൻ യൂണിവേഴ്സിറ്റീസ് പ്രൊഫ് മാനേജിങ് ഇന്റലെക്ച്ചൽ പ്രോപ്പർട്ടി ഇൻ യൂണിവേഴ്സിറ്റീസ് പ്രൊഫ് ഫിറോസ് അലി ഗെറ്റിങ് എ വർക്കിംഗ് ഡിസ്ക്ലോഷർ പേറ്റന്റ് തയ്യാറാക്കുന്നതിനുമുമ്പ് അത് തയാറാക്കുന്ന ഒരു വ്യക്തിയുടെ ലക്ഷ്യം ഇടപാടുകാരനിൽ നിന്നോ കണ്ടെത്തൽ നടത്തിയ വ്യക്തിയിൽനിന്നോ ഒരു പ്രവർത്തന വെളിപ്പെടുത്തൽ നേടുക എന്നതാണ് ഫിറോസ് അലി ഗെറ്റിങ് എ വർക്കിംഗ് ഡിസ്ക്ലോഷർ പേറ്റന്റ് തയ്യാറാക്കുന്നതിനുമുമ്പ് അത് തയാറാക്കുന്ന ഒരു വ്യക്തിയുടെ ലക്ഷ്യം ഇടപാടുകാരനിൽ നിന്നോ കണ്ടെത്തൽ നടത്തിയ വ്യക്തിയിൽനിന്നോ ഒരു പ്രവർത്തന വെളിപ്പെടുത്തൽ നേടുക എന്നതാണ് പ്രവർത്തന വെളിപ്പെടുത്തൽ പ്രധാനമാണ് കാരണം പ്രവർത്തന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ പേറ്റന്റ് തിരച്ചിൽ നടത്തുന്നതും പേറ്റന്റ് അപേക്ഷകൾ തയ്യാറാക്കുന്നതും പ്രവർത്തന വെളിപ്പെടുത്തൽ പ്രധാനമാണ് കാരണം പ്രവർത്തന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ പേറ്റന്റ് തിരച്ചിൽ നടത്തുന്നതും പേറ്റന്റ് അപേക്ഷകൾ തയ്യാറാക്കുന്നതും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്നതിനുള്ള ഒരു മാർഗം ഐ ഡി എഫിലൂടെയാണെന്ന് നമ്മൾ കണ്ടിരുന്നു നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്നതിനുള്ള ഒരു മാർഗം ഐ ഡി എഫിലൂടെയാണെന്ന് നമ്മൾ കണ്ടിരുന്നു ഐ ഡി എഫ് കണ്ടെത്തലിന്റെ പ്രവർത്തന വെളിപ്പെടുത്തൽ ലഭിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു ഐ ഡി എഫ് കണ്ടെത്തലിന്റെ പ്രവർത്തന വെളിപ്പെടുത്തൽ ലഭിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു ഐ ഡി എഫ് ഒരു കണ്ടെത്തലുമായി ബന്ധപ്പെട്ട ഐ പി തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കുന്നു ഐ ഡി എഫ് ഒരു കണ്ടെത്തലുമായി ബന്ധപ്പെട്ട ഐ പി തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കുന്നു ഇത് ആ കണ്ടെത്തലിന്റെ വ്യാപ്തിയും പ്രവർത്തനക്ഷമതയും മനസിലാക്കാൻ സഹായകമാണ് ഇത് ആ കണ്ടെത്തലിന്റെ വ്യാപ്തിയും പ്രവർത്തനക്ഷമതയും മനസിലാക്കാൻ സഹായകമാണ് ഇപ്പോൾ ഒരു ഐ ഡി എഫിന് വ്യത്യസ്ത ഭാഗങ്ങളുണ്ടെന്ന് നമ്മൾ കണ്ടു ഇപ്പോൾ ഒരു ഐ ഡി എഫിന് വ്യത്യസ്ത ഭാഗങ്ങളുണ്ടെന്ന് നമ്മൾ കണ്ടു അതിനു പാർട്ട് A ഉണ്ട് വ്യക്തിയുടെ മേൽവിലാസം നൽകേണ്ട ഒരു ഭാഗമുണ്ട് സാങ്കേതിക വശങ്ങൾ പരാമർശിക്കുന്ന ഒരു ഭാഗം ഉണ്ട് അതിനു പാർട്ട് A ഉണ്ട് വ്യക്തിയുടെ മേൽവിലാസം നൽകേണ്ട ഒരു ഭാഗമുണ്ട് സാങ്കേതിക വശങ്ങൾ പരാമർശിക്കുന്ന ഒരു ഭാഗം ഉണ്ട് മാത്രമല്ല പൊതുവായ വെളിപ്പെടുത്തൽ മുൻകാല പേറ്റന്റ് കലയെ കുറിച്ചുള്ള വിവരങ്ങൾ മുതലായവ നൽകേണ്ട ഭാഗങ്ങളുമുണ്ട് മാത്രമല്ല പൊതുവായ വെളിപ്പെടുത്തൽ മുൻകാല പേറ്റന്റ് കലയെ കുറിച്ചുള്ള വിവരങ്ങൾ മുതലായവ നൽകേണ്ട ഭാഗങ്ങളുമുണ്ട് ചില ഐ ഡി എഫുകളിൽ വിപണസാധ്യതകളെ കുറിച്ചും ലൈസെൻസിങ്ങിനെ കുറിച്ചുമുള്ള വിവരങ്ങൾ നൽകേണ്ട ഭാഗവുമുണ്ട് ചില ഐ ഡി എഫുകളിൽ വിപണസാധ്യതകളെ കുറിച്ചും ലൈസെൻസിങ്ങിനെ കുറിച്ചുമുള്ള വിവരങ്ങൾ നൽകേണ്ട ഭാഗവുമുണ്ട് ഒരു ഐ ഡി എഫ് വഴിയല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് കണ്ടെത്തൽ നടത്തിയ വ്യക്തിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തുക എന്നതാണ് ഒരു ഐ ഡി എഫ് വഴിയല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് കണ്ടെത്തൽ നടത്തിയ വ്യക്തിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തുക എന്നതാണ് അത് നേരിട്ടോ ടെലിഫോൺ വഴിയോ ആകാം അത് നേരിട്ടോ ടെലിഫോൺ വഴിയോ ആകാം അത് ഒരു കൂട്ടം ചോദ്യങ്ങളിലൂടെയും അതിന് ലഭിക്കുന്ന ഉത്തരങ്ങളനുസരിച്ച് വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചും ആകാം അത് ഒരു കൂട്ടം ചോദ്യങ്ങളിലൂടെയും അതിന് ലഭിക്കുന്ന ഉത്തരങ്ങളനുസരിച്ച് വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചും ആകാം പ്രവർത്തന വെളിപ്പെടുത്തലിന് യോഗ്യത നേടാനാകുന്ന എല്ലാ വിവരങ്ങളും നിങ്ങളുടെ പക്കലുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് അതിന്റെ ലക്ഷ്യം പ്രവർത്തന വെളിപ്പെടുത്തലിന് യോഗ്യത നേടാനാകുന്ന എല്ലാ വിവരങ്ങളും നിങ്ങളുടെ പക്കലുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് അതിന്റെ ലക്ഷ്യം ഒരു മുൻ പേറ്റന്റ് ആർട്ട് തിരയൽ ഫലപ്രദമായി നടത്താനും പേറ്റൻറ് സവിശേഷതയുടെ ഡ്രാഫ്റ്റിംഗ് ആരംഭിക്കാനും നിങ്ങളെ സഹായിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ ആയിരിക്കണം അത് ഒരു മുൻ പേറ്റന്റ് ആർട്ട് തിരയൽ ഫലപ്രദമായി നടത്താനും പേറ്റൻറ് സവിശേഷതയുടെ ഡ്രാഫ്റ്റിംഗ് ആരംഭിക്കാനും നിങ്ങളെ സഹായിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ ആയിരിക്കണം അത് ഐ ഡി എഫിലെ ചോദ്യങ്ങൾ പോലെ തന്നെ അഭിമുഖം നടത്തുന്നതും കണ്ടെത്തൽ ഘട്ടം തിരിച്ചറിയാൻ വേണ്ടിയായിരിക്കണം ഐ ഡി എഫിലെ ചോദ്യങ്ങൾ പോലെ തന്നെ അഭിമുഖം നടത്തുന്നതും കണ്ടെത്തൽ ഘട്ടം തിരിച്ചറിയാൻ വേണ്ടിയായിരിക്കണം കണ്ടെത്തൽ ഘട്ടത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് കാരണം ആത്യന്തികമായി കണ്ടെത്തൽ ഘട്ടമാണ് കണ്ടെത്തൽ എന്തായിരിക്കും എന്ന് നിർണയിക്കുന്നത് കണ്ടെത്തൽ ഘട്ടത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് കാരണം ആത്യന്തികമായി കണ്ടെത്തൽ ഘട്ടമാണ് കണ്ടെത്തൽ എന്തായിരിക്കും എന്ന് നിർണയിക്കുന്നത് അതിനാൽ ഒരു കണ്ടെത്തലിന്റെ ഇൻവെൻറ്റിവ് സവിശേഷതകൾ അതിന്റെ നോൺ ഇൻവെന്റീവ് സവിശേഷതകളിൽ നിന്ന് മനസ്സിലാക്കുന്നതിനും വേർതിരിക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് അതിനാൽ ഒരു കണ്ടെത്തലിന്റെ ഇൻവെൻറ്റിവ് സവിശേഷതകൾ അതിന്റെ നോൺ ഇൻവെന്റീവ് സവിശേഷതകളിൽ നിന്ന് മനസ്സിലാക്കുന്നതിനും വേർതിരിക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് ക്ലെയിം തയ്യാറാക്കുന്നതിൽ നിർണായകമായ കണ്ടെത്തൽ ഘട്ട നടപടിക്ക് പുറമെ കണ്ടെത്തലിന്റെ വിവരണത്തെയും പശ്ചാത്തലത്തെയും കുറിച്ചുള്ള വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും ക്ലെയിം തയ്യാറാക്കുന്നതിൽ നിർണായകമായ കണ്ടെത്തൽ ഘട്ട നടപടിക്ക് പുറമെ കണ്ടെത്തലിന്റെ വിവരണത്തെയും പശ്ചാത്തലത്തെയും കുറിച്ചുള്ള വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും ആ മേഖലയിലെ അറിവ് വെളിപ്പെടുത്തുന്ന ഒരു രേഖയോ വിവരങ്ങളുടെ ഒരു ഭാഗമോ വേണമെന്ന് കണ്ടെത്തൽ നടത്തിയ വ്യക്തിയോട് നിങ്ങൾക്ക് ആവശ്യപ്പെടാം ആ മേഖലയിലെ അറിവ് വെളിപ്പെടുത്തുന്ന ഒരു രേഖയോ വിവരങ്ങളുടെ ഒരു ഭാഗമോ വേണമെന്ന് കണ്ടെത്തൽ നടത്തിയ വ്യക്തിയോട് നിങ്ങൾക്ക് ആവശ്യപ്പെടാം ആ മേഖലയെ കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ സഹായകമാകുന്ന ഒരു പഠനമണ്ഡല ലേഖനം എന്നും ഇതിനെ വിളിക്കാം ആ മേഖലയെ കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ സഹായകമാകുന്ന ഒരു പഠനമണ്ഡല ലേഖനം എന്നും ഇതിനെ വിളിക്കാം ഒരു ഓൺലൈൻ ചോദ്യാവലി തയ്യാറാക്കി അതിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന മുറയ്ക്ക് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിലൂടെയും നിങ്ങൾക്ക് ക്ലയന്റിൽ നിന്ന് വിവരങ്ങൾ നേടാൻ കഴിയും ഒരു ഓൺലൈൻ ചോദ്യാവലി തയ്യാറാക്കി അതിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന മുറയ്ക്ക് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിലൂടെയും നിങ്ങൾക്ക് ക്ലയന്റിൽ നിന്ന് വിവരങ്ങൾ നേടാൻ കഴിയും അപ്രകാരം കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് അപ്രകാരം കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് ഇത് ഇമെയിൽ കൈമാറ്റത്തിലൂടെയോ ഓൺലൈൻ ചോദ്യാവലിയിലൂടെയോ ആകാം ഇത് ഇമെയിൽ കൈമാറ്റത്തിലൂടെയോ ഓൺലൈൻ ചോദ്യാവലിയിലൂടെയോ ആകാം അങ്ങെനെ നിങ്ങൾ ചില വിശാലമായ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ കണ്ടെത്തൽ മേഖലയെയും അതിനെ എപ്രകാരം തരംതിരിക്കാൻ കഴിയും എന്നതിനെയും മനസ്സിലാക്കാൻ കഴിയും അങ്ങെനെ നിങ്ങൾ ചില വിശാലമായ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ കണ്ടെത്തൽ മേഖലയെയും അതിനെ എപ്രകാരം തരംതിരിക്കാൻ കഴിയും എന്നതിനെയും മനസ്സിലാക്കാൻ കഴിയും തുടർന്ന് നേരത്തെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തരങ്ങൾ അനുസരിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാം തുടർന്ന് നേരത്തെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തരങ്ങൾ അനുസരിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാം ഇതിന്റെ ഒരു മാതൃക എപ്രകാരം ആയിരിക്കും എന്നറിയാൻ താല്പര്യം ഉള്ളവർ വെബ്സൈറ്റിൽ ലോഗ് ചെയ്താൽ വിവരങ്ങൽ അറിയാൻ കഴിയുന്നതാണ് ഇതിന്റെ ഒരു മാതൃക എപ്രകാരം ആയിരിക്കും എന്നറിയാൻ താല്പര്യം ഉള്ളവർ വെബ്സൈറ്റിൽ ലോഗ് ചെയ്താൽ വിവരങ്ങൽ അറിയാൻ കഴിയുന്നതാണ്